അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെ ലെക്ചർസിലേക്ക് സ്വാഗതം ഇത് ഫോറിയർ സീരീസിലും ഇന്റഗ്രൽ ട്രാൻസ്ഫോമുകളിലും മൊഡ്യൂൾ നമ്പർ 4 ആണ് ലെക്ചർ നമ്പർ 31 ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രിഗണോമെട്രിക് പോളിനോമിയലുകളും ട്രിഗണോമെട്രിക് സീരീസുമാണ് അതിനാൽ ആദ്യം ഈ മൊഡ്യൂൾ നാലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറിയർ സീരീസും ഇന്റഗ്രൽ ട്രാൻസ്ഫോംസും ആണ് അതിനാൽ സ്വാഭാവികമായും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാകും ഒന്ന് ഫോറിയർ സീരീസിലും മറ്റൊന്ന് ഇന്റഗ്രൽ ട്രാൻസ്ഫോമിലും ആയിരിക്കും അതിനാൽ നമുക് കാണാൻ കഴിയും ഫൊറിയർ സീരീസ് പ്രധാനമായും സൈൻ കൊസൈൻ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ലളിതവും ആനുകാലികവുമായ പ്രവർത്തനങ്ങളെ ഏകദേശമായി കണക്കാക്കാൻ ഒരു നട്ട് ഷെല്ലിൽ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ മറ്റു ആപ്ലിക്കേഷനെ കുറിച്ചാണ് അതിനാൽ നമ്മൾ ചില ആപ്ലിക്കേഷനുകളെക്കുറിച്ചും സംസാരിക്കും അതിനാൽ കറന്റ് ഫ്ലോ സൌണ്ട് വേവ്സ് ഇമേജ് അനാലിസിസ് ഉൾപ്പെടെ നിരവധി ആപ്ലിക്കേഷനുകൾ ഫോറിയർ സീരീസിൽ ഉണ്ട് ഇമേജ് വിശകലനത്തിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വഷൻ ഉൾപ്പെടെ നിരവധി ഡിഫറൻഷ്യൽ ഇക്വഷന്റെ പരിഹാരം ഫോറിയർ സീരീസ് ഉപയോഗിച്ച കണ്ടെത്താൻ കഴിയും രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോമിലായിരിക്കും മാത്രമല്ല നമുക് കാണാം ഈ ഫൊറിയർ സീരീസിൽ നിന്ന് ഇന്റഗ്രൽ ട്രാൻസ്ഫോർമിംഗ് പ്രത്യേകമായും ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് ഒരു ബന്ധമുണ്ട് അതിനാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊതുവായി രണ്ട് തരം ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് ഉണ്ടെന്നാണ് ഒന്ന് ഫൊറിയർ ട്രാൻസ്ഫോമിനെക്കുറിച്ച് അത് ഫൊറിയർ സീരീസുമായി കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഫൊറിയർ സീരീസിൽ നിന്ന് ഇന്റഗ്രൽ ട്രാൻസ്ഫോമിലേക്കുള്ള പരിവർത്തനം നമുക് കാണാൻ കഴിയും ഈ ലെക്ചറിൽ ഒരു ഇന്റഗ്രൽ ട്രാൻസ്ഫോം കൂടി ഉണ്ടാകും ലാപ്ലേസ് ട്രാൻസ്ഫോം അതും ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്യും കൂടാതെ ഈ ഇന്റഗ്രൽ ട്രാൻസ്ഫോമിനെക്കുറിച്ച് അടിസ്ഥാനപരമായി ഇതിന് പിന്നിലെ പ്രചോദനം നമുക്ക് വിശദീകരിക്കാം അതിനാൽ ഈ ഭാഗത്തെ തുടക്കം മുതൽ അവസാനം വരെയുള്ള മൂല്യങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും നേരിട്ട് പരിഹരിക്കുകയും ചെയ്യും ഇതിന് പരിഹാരം ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ ഡിഫറൻഷ്യൽ ഇക്വഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക് വളരെ പ്രത്യേകതയുള്ള പരിഹാരങ്ങൾ ലഭിക്കും അതിനാൽ ആ ഭാഗങ്ങൾ നിങ്ങൾക് മറ്റു ചില ലെക്ചറിൽ പഠിക്കാം അതിനാൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ആദ്യ മൂല്യത്തിലേക്കും അവസാന മൂല്യത്തിലേക്കും ഇന്റഗ്രൽ ട്രാൻസ്ഫോം ഞങ്ങൾ പ്രയോഗിക്കും ഇത് സാധാരണ എളുപ്പമാണ് കൂടാതെ ഇത് ഒരു ലളിതമായ ആൾജിബ്രായിക് പ്രോബ്ലം ആയി മാറുന്നു അഥവാ നമ്മൾ സംസാരിക്കുന്നത് അവിടെയുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഇന്റഗ്രൽ ട്രാൻസ്ഫോം സാധാരണ ഡിഫറൻഷ്യൽ ഇക്വഷനിലേക്ക് മാറും കൂടാതെ അവ രണ്ടും പരിഹരിക്കാൻ എളുപ്പമാണ് മാത്രമല്ല വീണ്ടും പരിഹരിക്കാൻ നമ്മൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോം ഉപയോഗിക്കും അതിനാൽ ഇന്റഗ്രൽ ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ ഇക്വഷന്റെ പരിഹാരം ലഭിക്കുന്നതിന് നമ്മുടെ ലെക്ചറിൽ കാണുന്ന ഒരു തരം ടെക്നിക് ആണിത് കൂടാതെ ഈ പരിഹാരങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടെത്താൻ ശ്രമിച്ചാൽ അവ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇന്റഗ്രൽ ട്രാൻസ്ഫോം ഉപയോഗിച്ചു അവ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം അതിനാൽ നമുക് ഫോറിയർ സീരീസിൽ നിന്ന് ആരംഭിക്കാം ഫോറിയർ സീരീസിൽ ഏകദേശം 10 ലെക്ചറും തുടർന്ന് ഫോറിയർ ട്രാൻസ്ഫോമിനെക്കുറിച്ച് 10 ലെക്ചറും തുടർന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെക്കുറിച്ച് 10 ലെക്ചറും ഉണ്ടാകും അതിനാൽ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ഫങ്ക്ഷനെക്കുറിച്ചാണ് കാരണം ഫോറിയർ സീരീസിന് പീരിയോഡിക് ഫങ്ക്ഷനുമായി ബന്ധം ഉണ്ട് അതിനാൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് പീരിയോഡിക് ഫങ്ക്ഷൻ എന്താണെന്നതിനെകുറിച്ചാണ് മാത്രമല്ല ഫൊറിയർ സീരീസ് ചർച്ച ചെയ്യുന്നതിനോ അടുത്ത ലെക്ചറിൽ ഫൊറിയർ സീരീസ് നിർമ്മിക്കുന്നതിനോ ഉള്ള വളരെ അടിസ്ഥാനപരമായ ആമുഖമാണിത് അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ട്രിഗണോമെട്രിക് പോളിനോമിയലുകളെക്കുറിച്ചും ട്രിഗണോമെട്രിക് സീരീസിനെക്കുറിച്ചുമാണ് കൂടാതെ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന പദം ട്രിഗണോമെട്രിക് സിസ്റ്റം ആണ് അതിനാൽ ഈ പീരിയോഡിക് ഫങ്ക്ഷനുകൾ ഉപയോഗിച്ച് ഞാൻ ആരംഭിക്കാം ഒരു ഫംഗ്ഷൻ f പിരീഡ് T യുടെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ആണെങ്കിൽ f ft T എന്നാകും മാത്രമല്ല T എന്നത് ഫംഗ്ഷന്റെ പിരീഡ് ആണെന്നും ഈ പ്രോപ്പർട്ടി എല്ലാ t യിലും ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്നും നമ്മൾ വിളിക്കുന്നു t യുടെ ഏറ്റവും ചെറിയ മൂല്യത്തിനെയാണ് നമ്മൾ പിരീഡ് എന്ന് വിളിക്കുന്നത് മാത്രമല്ല ഇത് ഒരു തുല്യത നിലനിർത്തും കാരണം ഈ പ്രോപ്പർട്ടിയുള്ള T കണ്ടെത്തിയാൽ നമ്മൾ പിന്നീട് നിരീക്ഷിക്കും ഇത് ഇവിടെ 2T അല്ലെങ്കിൽ 3T ആയതിനാൽ ഈ T യുടെ ഏത് ഇന്റിജറും പ്രവർത്തിക്കും ഈ പ്രോപ്പർട്ടി സത്യമായിരിക്കും അപ്പോൾ f ft T ആണെങ്കിൽ f ft 2T അല്ലെങ്കിൽ f t 2 തുടങ്ങിയവയായി മാറും അതിനാൽ ഈ തുല്യത സത്യമാകുന്ന ഏറ്റവും ചെറിയ മൂല്യത്തെ f ഫംഗ്ഷന്റെ ഫണ്ടമെന്റൽ പിരീഡ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ T f ഫംഗ്ഷന്റെ പിരീഡ് ആണെങ്കിൽ nT എന്നത് ഏതെങ്കിലും n ∈ N ന് വേണ്ടിയുള്ളതും f ന്റെ ഒരു പിരീഡുമാണ് കൂടാതെ നമ്മൾ സംസാരിക്കുന്നത് ആ T യിലെ ഏറ്റവും ചെറുതിനെക്കുറിച്ചാണ് ഇതിനെ f എന്നതിന്റെ ഫണ്ടമെന്റൽ പിരീഡ് എന്ന് വിളിക്കുന്നു അതിനാൽ പീരിയോഡിക് ഫങ്ക്ഷന് രസകരമായ ചില സവിശേഷതകൾ ഉണ്ട് അവയിൽ ചിലത് ഞാൻ ഇവിടെ പട്ടികപ്പെടുതാം അതിനാൽ രണ്ട് ഫംഗ്ഷനുകളുടെ ആകെത്തുക വ്യത്യാസം പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോഷ്യന്റ് എന്നിവ പീരിയോഡിക് ആണ് അതിനാൽ നമുക്ക് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അവയുടെ തുകയും പീരിയോഡിക് ആയിരിക്കും അവയുടെ പ്രോഡക്റ്റ് പീരിയോഡിക് ആയിരിക്കും അവയുടെ വ്യത്യാസവും പീരിയോഡിക് ആയിരിക്കും അവയുടെ കോഷ്യന്റ് പീരിയോഡിക് ആയിരിക്കും ഈ പീരിയോഡിക് ഫംഗ്ഷൻ നമ്മുടെ അടുത്തുള്ള ഒരു നല്ല പ്രോപ്പർട്ടിയാണ് ഇത് ഉദാഹരണത്തിന് f sin x sin 2x sin 3x നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനാൽ നമ്മൾ 3 പീരിയോഡിക് ഫംഗ്ഷൻ ചേർത്തു അതിനാൽ sin x ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ sin 2x അല്ലെങ്കിൽ sin 3x ഇവയെല്ലാം വ്യത്യസ്ത പിരീഡുള്ള വ്യത്യസ്ത ഫണ്ടമെന്റൽ പിരീഡ് ഉള്ള പീരിയോഡിക് ഫംഗ്ഷനാണ് അതിനാൽ മൂന്ന് വ്യത്യസ്ത പീരിയോഡിക് ഫംഗ്ഷന്റെ ആകെത്തുകയായ ഈ ഫംഗ്ഷന്റെ പിരീഡ് എന്താണ് നമ്മൾ ഓരോ പിരീഡും പ്രത്യേകമായി നോക്കും അതിനാൽ ആദ്യ ഫംഗ്ഷന്റെ പിരീഡ് 2π ആണ് ഇത് അറിയാവുന്നതാണ് നമ്മൾ sin 2x നെ കുറിച് സംസാരിക്കുമ്പോൾപിരീഡ് പകുതിയായിരിക്കും കാരണം നമ്മൾ അവിടെ 2x നെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ സാധാരണയായി നമ്മൾ 2π കണക്കുകൂട്ടുകയും ഈ സംഖ്യ കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നത് ഈ sine അല്ലെങ്കിൽ cosine ഫംഗ്ഷന്റെ പിരീഡ് നൽകും അതിനാൽ ഇവിടെ നമുക്ക് പിരീഡ് π ഉണ്ട് അതുപോലെ തന്നെ sin 3x ന് നമുക്ക് 2π3 പിരീഡ് ഉണ്ട് അതിനാൽ 2π പിരീഡ്π പിരീഡ് പിന്നെ 2π3 പിരീഡ് അതിനാൽ ഈ തുകയുടെ പിരീഡ് ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രവർത്തനങ്ങളുടെ പൊതുവായ പിരീഡ് നാം കണ്ടെത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് sin x ന് 2π പിരീഡ് ഉണ്ട് തുടർന്ന് ഈ sin 2x ന് π പിരീഡ് ഉണ്ട് പക്ഷേ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് പിരീഡ് π ആണെങ്കിൽ അത് π ന് ശേഷം അതിന്റെ മൂല്യം ആവർത്തിക്കുകയാണെങ്കിൽതീർച്ചയായും ഇത് 2π ന് ശേഷം അതിന്റെ മൂല്യം ആവർത്തിക്കും ഇതിന്റെ ഫലമായി നമ്മൾ π യെക്കാൾ nπ യെ ഒരു പിരീഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ 2π യും ഈ ഫംഗ്ഷന്റെ പിരീഡാണ് കൂടാതെ ഈ ഫംഗ്ഷനെ ഞാൻ 3 കൊണ്ട് ഗുണിച്ചാൽ വീണ്ടും 2π ആ ഫംഗ്ഷന്റെ പിരീഡാണ് അതിനാൽ ഈ മൂന്ന് പ്രവർത്തനങ്ങളുടെയും പൊതുവായ പിരീഡിൽ നമ്മൾ യഥാർത്ഥത്തിൽ നിരീക്ഷിക്കുന്നത് 2π ആണ് അതിന്റെ ഫലമായി പിരീഡ് f നെ കുറിച് നമുക്ക് നോക്കാം കാരണം ഇത് 2π പിരീഡിന് ശേഷം അതിന്റെ മൂല്യം ആവർത്തിക്കുന്നു ഇത് π ന് ശേഷവും സ്വാഭാവികമായും 2π ന് ശേഷവും ആവർത്തിക്കുന്നു ഇത് 2π നും ശേഷം ആവർത്തിക്കുന്നു അതിനാൽ ഈ 2π പിരീഡിന് ശേഷവും തുക ഫംഗ്ഷൻ അതിന്റെ മൂല്യം ആവർത്തിക്കും ഇത് sin x sin 2x cos 3x എന്നിവയുടെ കോമൺ പിരീഡാണ് അതിനാൽ ഇവിടെ ഒരു 2π ഉണ്ട് നമ്മൾ ഇത് നിരീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും fx 2π sinx 2π sin2x 2π cos3x 2π ആണ് ഇതിനോടൊപ്പം 4x കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ഇവിടെ x 2π ആകും ഇവിടെ f ന് പകരം x 2π ആകും ഇവിടെയും x 2π ആകും അതിനാൽ ഇത് 4π ആയി മാറും ഇത് 6π ആയി മാറും അതിനാൽ ഇവിടെ ഈ sinx 2π എന്നത് sin x ആകും ഇവിടെയും sinx 4π എന്നത് sin x ആകുംമാത്രമല്ല ഇത് cos x കൂടിയാണ് കാരണം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം 2π അല്ലെങ്കിൽ 2π3 എന്ന പിരീഡ് ഉണ്ട് അതിനാൽ ഇത് sin x sin 2x cos 3x വീണ്ടും അതേ ഫംഗ്ഷൻ f ആകും അതിനാൽ ഇത് 2π പിരീഡുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് കാരണം fx 2π f ആണ് ഇത് ഫണ്ടമെന്റൽ പിരീഡാണ് കാരണം കോമൺ പിരീഡ് 2π യോ അതിൽ കുറവോ ആണ് അതിനാൽ അത് ഫണ്ടമെന്റൽ പിരീഡ് കൂടിയാണ് അതിനാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു രസകരമായ പ്രോപ്പർട്ടി ഒരു നീളം T യുടെ ന്റെ ഏതെങ്കിലും ഇന്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ സംയോജിപ്പിക്കാവുന്നതാണെങ്കിൽ അതേ ദൈർഘ്യമുള്ള മറ്റേതെങ്കിലും ഇന്റർവെല്ലിൽ അത് സംയോജിപ്പിക്കാവുന്നതാണ് കൂടാതെ രസകരമായ ഭാഗം ഇന്റഗ്രലിന്റെ മൂല്യം ഇന്റർവെല്ലിന്റെ ദൈർഘ്യത്തിന് തുല്യമാണ് എന്നതാണ് കൂടാതെ നമ്മൾ സംസാരിക്കുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ അതിന്റെ ഇന്റെഗ്രേൻഡ് എങ്കിൽ എല്ലാ ഇന്റഗ്രലുകളുടെയും മൂല്യം തുല്യമായിരിക്കും നമ്മൾ ഇത് സമന്വയിപ്പിക്കുന്ന ഇന്റർവെല്ലിന്റെ ദൈർഘ്യം മാത്രം കാണണം അതിനാൽ ഇന്റഗ്രലിന്റെ മൂല്യം ഒന്നുതന്നെയായിരിക്കും ഞാൻ കൂടുതൽ വിശദീകരിക്കട്ടെ ഇവിടെ f പിരീഡ് T ക്ക് ഒപ്പം പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ ഇത് a യിൽ നിന്ന് a T യിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മൂല്യം ഒന്നുതന്നെയായിരിക്കും മറ്റൊരു പോയിന്റ് b യിൽ നിന്ന് b T യിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും അതിനാൽ ഇവിടെ നീളം T ആണ് ഈ ഇന്റർവെല്ലിന്റെ നീളം T ആണ് 0 മുതൽ T വരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മൂല്യം തുല്യമായിരിക്കും അതിനാൽ ഈ മൂല്യങ്ങളെല്ലാം നമ്മൾ T പിരീഡ് മുഴുവൻ ഉൾക്കൊള്ളുന്നിടത്തോളം ഒരേപോലെ ആയിരിക്കും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ നിന്ന് ഇത് ദൃശ്യമാക്കാംഇത് ഇവിടെ നിന്ന് ഇതിലേക്കുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് കരുതുക അപ്പോൾ നമുക്ക് ഇത് ഇവിടെയുണ്ട് എന്നിട്ട് വീണ്ടും ഇത് ഇവിടെ നിന്നും തുടങ്ങുന്നു അതിനാൽ ഇത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് അതിനാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ആ പിരീഡ് അവസാനിക്കുന്നു ഈ പോയിന്റിലേക്കുള്ള ഈ പോയിന്റ് ഒരു പിരീഡ് ആണ് അതിനാൽ നമ്മൾ ഇത് a യിൽ നിന്ന് a T യിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽഇവിടെ രസകരമായത് എന്താണ് നമ്മൾ ഈ പോയിന്റിൽ ആരംഭിക്കുകയും തുടർന്ന് ഈ പിരീഡ് T ഉൾക്കൊള്ളുകയും ചെയ്താൽഇവിടെ ശേഷിക്കുന്ന ഭാഗം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ a T അതിനാൽ ഈ കർവിന് കീഴിലുള്ള പ്രദേശം f ഈ രണ്ട് ദീർഘചതുരങ്ങളുടെ വിസ്തൃതിയായിരിക്കും അതിനാൽ ഒന്ന് ഇതാണ് മറ്റൊന്ന് ഇതാണ് മറ്റൊരു പോയിന്റ് b യിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ സമാന സാഹചര്യം സംഭവിക്കുന്നു ഉദാഹരണത്തിന് അത് ഇവിടെ ഉൾപെടുത്തുന്നു അതിനാൽ ഏത് സാഹചര്യത്തിലും a മുതൽ a T വരെ അഥവാ b മുതൽ b T വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ദീർഘചതുരങ്ങളുടെ വിസ്തീർണ്ണം ഈ ചെറുതും ഈ വലുതും കഴിഞ്ഞു ഇത് 0 മുതൽ T വരെ ചെയ്തതിന് തുല്യമാണ് വീണ്ടും ഈ രണ്ട് ദീർഘചതുരങ്ങളുടെ വിസ്തീർണ്ണം കഴിയും അതിനാൽ നമുക് ഈ പീരിയോഡിക് ഫംഗ്ഷൻ ഉള്ളപ്പോഴെല്ലാം രസകരമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഏത് പോയിന്റിൽ നിന്നും ആ പോയിന്റിലേക്കും T പിരീഡിലേക്കും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും b മുതൽ b T വരെ അഥവാ 0 മുതൽ 0 T വരെ അതിനാൽ ഏത് പോയിന്റിൽ നിന്നും നമുക്ക് ആരംഭിക്കാനാവും തുടർന്ന് മുഴുവൻ പിരീഡും ഉൾക്കൊള്ളാൻ കഴിയും ആ ഇന്റഗ്രൽസ് എല്ലാം തുല്യമായിരിക്കും അതിനാൽ ട്രിഗണോമെട്രിക് പോളിനോമിയലുകളും ട്രിഗണോമെട്രിക് സീരീസും ഇപ്പോൾ പരിഗണിക്കും അതിനാൽ ഓർഡർ n എന്ന ട്രിഗണോമെട്രിക് പോളിനോമിയലിനെ നിർവചിച്ചിരിക്കുന്നത് കോസിന്റെയും സൈനിന്റെയും ആകെത്തുകയായിട്ടാണ് ഇവിടെ വീണ്ടും ചില കോഎഫിഷ്യന്റ്സ് കോസിനും സൈനിനും മുന്നിൽ ഉണ്ട് കാരണം കോസ് സൈൻ പദങ്ങൾ ലഭിക്കാനായി n അതിലേക്ക് കൂട്ടിച്ചേർക്കും അതിനാൽ ഈ ട്രിഗണോമെട്രിക് പോളിനോമിയലിനെ n ന്റെ ഓർഡർ എന്ന് വിളിക്കുന്നു നമ്മൾ Sn എന്ന് സൂചിപ്പിക്കുന്ന ഈ പോളിനോമിയലിന്റെ പിരീഡ് ഈ സൈൻ കൊസൈൻ പദങ്ങളുടെയെല്ലാം പൊതുവായ പിരീഡായിരിക്കും കാരണം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കൊസൈൻ സൈൻ കൊസൈൻ സൈൻ ഫംഗ്ഷൻ ചേർക്കുന്നു കൂടാതെ പൊതുവായ പിരീഡ് ഈ കേസിൽ ഈ പരിമിതമായ തുകയ്ക്കായി നിങ്ങൾക്ക് കാണണമെങ്കിൽ ട്രിഗണോമെട്രിക് പോളിനോമിയലിന്റെ ഇവിടെ നിർമ്മിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ പൊതുവായ പിരീഡ് ആയിരിക്കും അതിനാൽ k 1 ആണെങ്കിൽ അത് 𝝥xl sin 𝝥xlഅപ്പോൾ നമുക്കുള്ളത് cos 2𝝥xl sin 2𝝥xl അങ്ങനെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നതുവരെ ഇത് തുടരും sin n𝝥xland cos n𝝥xl അതിനാൽ ഇതിന്റെ പൊതുവായ പിരീഡ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രത്യേക എളുപ്പമുള്ള ഉദാഹരണത്തിൽ നിന്ന് ഓർക്കുക ആദ്യത്തെ ഫംഗ്ഷനിൽ തന്നെ പൊതു പിരീഡ് വരുന്നു കാരണം ഇവിടെ നമുക്ക് രണ്ട് തവണയും മൂന്ന് തവണയും n തവണയും ഉണ്ട് അതിനാൽ ആ പ്രവർത്തനങ്ങളുടെ പിരീഡ് ചെറുതായിരിക്കും ആദ്യത്തേതിൽ നിന്ന് ഏറ്റവും വലുത് കിട്ടും മറ്റുള്ളവ ഒന്നിലധികം മാത്രമാണ് മറ്റുള്ളവ വെറും ഗുണിതങ്ങളാണ് ഈ പിരീഡിൽ ഈ പിരീഡ് ലഭിക്കാൻ നമുക്ക് സ്വാഭാവിക സംഖ്യ കൊണ്ട് ഗുണിക്കാം അതിനാൽ ഇത് ഒരു സാധാരണ പിരീഡായിരിക്കും അതിനാൽ സാധാരണ പിരീഡ് 2π ആയിരിക്കും തുടർന്ന് നമുക്ക് ഈ നമ്പർ l കൊണ്ട് ഹരിക്കാം അതിനാൽ ഇത് 2l ആണ് അതിനാൽ ഈ ട്രിഗണോമെട്രിക് പോളിനോമിയൽ പൊതുവായ പിരീഡ് 2l ആയ ഈ എല്ലാ പ്രവർത്തനങ്ങളുടെയും പതിപ്പ് ആണ് അതിനാൽ ഇവിടെ ഈ ഫംഗ്ഷൻ Sn ന്റെ പിരീഡ് 2l ആണ് അഥവാ ഈ പോളിനോമിയലിന് l 2 മടങ്ങ് ആയിരിക്കും കൂടാതെ ഈ n ന് പകരം k 1 ൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അതായത് നമ്മൾ അനന്തമായ നിരവധി പദങ്ങളിലേയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനെ അനന്തമായ ഇൻഫിനിറ്റ് ട്രിഗണോമെട്രിക് സീരീസ് എന്ന് വിളിക്കുന്നു ഈ കേസിൽ സീരീസ് ഒത്തുചേരുകയാണെങ്കിൽ കാരണം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അനന്തമായ സീരീസ് ഒത്തുചേരാനിടയില്ല എന്നതിനെക്കുറിച്ചാണ് എന്നാൽ ഇത് ഒത്തുചേരുന്നുവെങ്കിൽ ഇത് 2l പിരീഡിന്റെ ഫംഗ്ഷനെ പ്രതിനിധീകരിക്കുന്നു കാരണം n പരിമിതമാകുമ്പോൾ Sn ന്റെ പിരീഡ് 2l ആണെന്ന് നമ്മൾ കണ്ടു കൂടാതെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പാദങ്ങൾ ചേർക്കുന്നത് തുടരുകയാണ് പക്ഷേ ആ കോമൺ പിരീഡ് മാറുകയില്ല അത് 2l ആയി തുടരും അതിനാൽ ഈ സീരീസ് ഒത്തുചേരുകയാണെങ്കിൽ അപ്പോൾ ഇത് 2l പീരിയോഡിക് ഫംഗ്ഷനായി മാറും അതിനാൽ ഫോറിയർ സീരീസ് വിശദീകരിക്കുന്നതിന് തീർച്ചയായും അടുത്ത ലെക്ചറിൽ നമുക് ആവശ്യമായ മറ്റൊരു വിവരമാണിത്ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ട്രിഗണോമെട്രിക് സീരീസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ട്രിഗണോമെട്രിക് സീരീസും കോസൈൻ സൈൻ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രിഗണോമെട്രിക് പോളിനോമിയലും പരിചയപ്പെടുത്തി അതിനാൽ ഒരു സൂചന ഈ സൈനും കൊസൈൻ ഫംഗ്ഷനുകളും വളരെ ലളിതമായ പ്രവർത്തനങ്ങളാണെങ്കിലും അവയിൽ ഓരോന്നിന്റെയും ഗ്രാഫ് നമുക്കറിയാം എന്നാൽ രസകരമെന്നു പറയട്ടെ അവയുടെ തുക വളരെ സങ്കീർണമായേക്കാം ഈ കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ സൈൻ കൊസൈൻ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ സങ്കീർണമായ നിരവധി ഫംഗ്ഷനുകളെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുമെന്ന് പിന്നീട് കാണാം ഒരു ലളിതമായ ഉദാഹരണം എടുത്താൽ sin x sin 2x cos 3x എന്നിവയ്ക്ക് മുമ്പ് നമ്മൾ ഉദാഹരണത്തിന് ഈ 2π ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ പൊതുവായ പിരീഡ് ഇവിടെ 2π ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ പിരീഡ് തുക എല്ലാം 2π ആണ് അതിനാൽ നമ്മൾ ഇത് അടയാളപ്പെടുത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും സൈനിൽ നിന്നും കൊസൈൻ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര എളുപ്പമല്ല ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഇവിടെ ഇത് 0 ൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഈ കർവേചർ ഇവിടെയുണ്ട് തുടർന്ന് ഈ 2π ലേക്ക് പോകുന്നു തുടർന്ന് ഇത് വീണ്ടും അതിന്റെ മൂല്യം ആവർത്തിക്കുന്നു അതിനാൽ ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ഇത് ഒരു പിരീഡാണ്ഒരു പിരീഡിൽ ഇത് 2π ആണ് അതിനാൽ ഇവിടെയുള്ള ഈ പോയിന്റിൽ 2π എവിടെ ആണോ അപ്പോൾ അത് അതിന്റെ മൂല്യം ആവർത്തിക്കും അതിനാൽ ഈ മൂന്ന് ലളിതമായ പ്രവർത്തനങ്ങളുടെ ആകെത്തുക ഒരു സങ്കീർണ്ണമായ രീതി കാണിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ പദങ്ങൾ അല്ലെങ്കിൽ അനന്തമായ നിരവധി പദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും ഇവിടെ ചില കോഫിഫിഷ്യന്റുകളുമായി ഈ കോസും സൈനും ഉണ്ടായിരിക്കുന്നതായി നമുക്ക് കാണാം അതിനാൽ സൈനിന്റെയും കൊസൈൻ ഫംഗ്ഷനുകളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള ഒരു ഫംഗ്ഷൻ ലഭിക്കുന്നതിന് നമുക് പൂർണ്ണമായ ഒരു വഴിയുണ്ട് അതാണ് ഫൊറിയർ സീരീസിൽ നമ്മൾ കൃത്യമായി കണ്ടത് അടുത്ത ലെക്ചറിൽ നമുക്കത് കാണാൻ കഴിയും അതിനാൽ ഫംഗ്ഷന് പിരീഡ് 2π ഉണ്ട് ഇത് ഞാൻ ഇതിനകം ചർച്ച ചെയ്ത ഈ മൂന്ന് പ്രവർത്തനങ്ങളുടെയും കോമൺ പിരീഡാണ് കൂടാതെ ഇപ്പോൾ നമുക് ട്രിഗണോമെട്രിക് സിസ്റ്റത്തിൽ വളരെ രസകരമായ ഒരു പ്രോപ്പർട്ടി കാണാൻ കഴിയും അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക് സിസ്റ്റം നമ്മൾ ഇതിനെ സൈൻ കൊസൈൻ എന്നൊക്കെ പറയുന്നു sin 2x cos 3x അതായത് കൊസൈൻ സൈൻ ഫംഗ്ഷനുകൾ ഉള്ള സംവിധാനം അതിനെ ത്രികോണമിതി സംവിധാനം എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക് ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ ഫലം കിട്ടി നമ്മൾ അടിസ്ഥാന ട്രിഗണോമെട്രിക് സിസ്റ്റത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് സിംപിൾ ഫംങ്ഷൻസ് ആയ 1 cos x sin x cos 2x sin 2x etc ഇത് നമുക്ക് ആവശ്യമുള്ള ഏത് നമ്പറിലേക്കും തുടരാം അതിനാൽ ഇവിടെ രസകരമായത് എന്താണ് ഈ അടിസ്ഥാന ട്രിഗണോമെട്രിക് സിസ്റ്റത്തെ ഈ ഇന്റർവെൽ −π π യെ ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ പറയുന്നു ഈ വസ്തുത നമ്മൾ തെളിയിക്കും അല്ലെങ്കിൽ 2π ദൈർഘ്യം കവർ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് മറ്റേതെങ്കിലും ഇന്റർവെൽ എടുക്കാം ഉദാഹരണത്തിന് 0 2π അല്ലെങ്കിൽ a a 2π കാരണം ഇവിടെ ഈ സിസ്റ്റത്തിന് കോമൺ പിരീഡ് 2π ആണ് അതിനാൽ ഇത് ഇന്റർവെൽ −𝜋 𝜋 അല്ലെങ്കിൽ 02𝜋 അല്ലെങ്കിൽ നമുക്ക് ഏത് നമ്പറും എടുക്കാം 𝑎 𝑎 2𝜋 ഇതും നല്ലതാണ് ഇതിലെ ഓർത്തോഗണൽ ആണ് അതിനാൽ ഈ അടിസ്ഥാന ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ പറയും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഈ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ഫംഗ്ഷനുകൾ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ 1 എടുക്കും cos 2𝑥 ഉം 1 × cos 2𝑥 ഉം എടുക്കുന്നു കൂടാതെ - 𝜋 to 𝜋 𝑑𝑥 ലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം ഇത് 0 ആയിരിക്കും ഇവിടെ ഇത് വ്യക്തമായി കാണാം പക്ഷേ അടുത്ത സ്ലൈഡിൽനമ്മൾ ഇത് തെളിയിക്കും അതിനാൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ട് അംഗങ്ങളെയും ഈ ഇന്റർവെലിൽ അവരുടെ പ്രൊഡക്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 𝜋 മുതൽ 𝜋 വരെ ഈ ഇന്റെഗ്രേലിന്റെ മൂല്യം 0 ആകും ഇതാണ് നമ്മൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് അതിനാൽ ഞങ്ങൾ വ്യത്യസ്ത കേസുകൾ പരിഗണിക്കും ആദ്യം നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് 𝑛 ≠ 0 ആണെങ്കിൽനമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും പൂർണ്ണസംഖ്യ പക്ഷെ അത് 0 ക്ക് തുല്യമല്ല തുടർന്ന് സൈൻ അല്ലെങ്കിൽ കൊസൈൻ വിഭാഗത്തിലെ മറ്റേതെങ്കിലും അംഗവുമായി ഫംഗ്ഷൻ 1 ന്റെ ഓർത്തോഗോണാലിറ്റി കാണിക്കുന്നതിന് നമുക് ഇനിപ്പറയുന്ന ഇന്റഗ്രലുകൾ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് തിരയുന്നത് അതിനാൽ 1 ഈ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിലെ ഒരു അംഗം കൂടിയാണ് അതിനാൽ മറ്റേതെങ്കിലും സൈൻ അല്ലെങ്കിൽ കോസൈൻ ഫംഗ്ഷൻ sin 𝑥 sin 2𝑥 cos 𝑥 cos 2𝑥 മുതലായവ ഉപയോഗിച്ച് നമ്മൾ 1 എടുക്കും സൈൻ അല്ലെങ്കിൽ കൊസൈൻ കുടുംബത്തിൽ നിന്നുള്ള ഈ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിലെ മറ്റേതെങ്കിലും അംഗവുമായി ഇവ രണ്ടും ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ ഇവിടെ കാണിക്കും അതിനാൽ ഇവിടെ നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ cos 𝑛𝑥 ആണ് 𝑛 0 അല്ലാത്ത മറ്റേതും ആകാം കാരണം 𝑛 0 ആയാൽ ഇത് 1 ആകും അതിനാൽ നമ്മൾ ഒരേ അംഗങ്ങളുടെ ഉൽപന്നം നിർമ്മിക്കുന്നതിനാൽ നമ്മൾ ഇവിടെ രണ്ട് വ്യത്യസ്ത അംഗങ്ങളെ ഒഴിവാക്കേണ്ടി വരും അതിനാൽ ഇത് ഈ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിലെ ഒരു അംഗവും ഇത് മറ്റൊരു അംഗവും ആണെങ്കിൽ മാത്രമല്ല നമ്മൾ ഇതിനെ −𝜋 മുതൽ 𝜋 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് cos 𝑛𝑥 ആയിരിക്കും അതിനാൽ ഇതിന്റെ ഇന്റഗ്രൽ sin 𝑛𝑥𝑛 ആകുകയും അതുപിന്നെ −𝜋 മുതൽ 𝜋 വരെ ആകുകയും ചെയ്യും sin 𝑛𝜋 0 ആണ് sin−𝑛𝜋യും 0 ആണ് അതുകൊണ്ട് ഇതിന്റെ ഫലവും 0 ആയിരിക്കും അതിനാൽ 1 ൽ cos 2𝑥 cos 3𝑥 cos 5𝑥 തുടങ്ങിയവ അർത്ഥമാക്കുന്ന 1 കൊസൈൻ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തെ എടുക്കുകയാണെങ്കിൽ ഇവ രണ്ടും ഓർത്തോഗണലാണ് അതുപോലെ നമ്മുടെ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിൽ നിന്ന് സൈൻ കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗത്തെ എടുത്താൽ 1 കൂടെ നമുക്ക് തെളിയിക്കാനാകും വീണ്ടും നമുക് കാണാനാകും ഇത് cos 𝑛𝑥𝑛 ആണ് ഇവിടെ അല്ലെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് പറയാൻ കഴിയും sin 𝑛𝑥 ഒരു ഓട് ഫങ്ക്ഷന് ആണ് കൂടാതെ ഇതിന്റെ മൂല്യം 0 ആണ് അതിനാൽ ഈ ഇന്റെഗ്രേലിന്റെ വമൂല്യവും 0 ആയിരിക്കും അതിനാൽ 1 കൊണ്ട് നമുക്ക് കൊസൈൻ കുടുംബത്തിലെ ഏതൊരു അംഗത്തെയോ സൈൻ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തെയോ എടുക്കാം ഇവ ഓർത്തോഗണലാണ് താഴെ പറയുന്ന ഉപയോഗപ്രദമായ ഫലങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ് cos 𝑛𝑥 cos 𝑛𝑥 മീൻ cos 𝑥 cos 𝑥 അല്ലെങ്കിൽ cos 2𝑥 അതിനാൽ അവ വ്യത്യസ്ത അംഗങ്ങളല്ല ഒരേ അംഗങ്ങളാണ് നേരത്തെയുള്ള ഫലത്തിൽ നമ്മൾ പറഞ്ഞത് സിസ്റ്റം ഓർത്തോഗണൽ ആണ് അതായത് നമ്മൾ രണ്ട് വ്യത്യസ്ത അംഗങ്ങളെ എടുക്കുകയാണെങ്കിൽ അവർ ഓർത്തോഗണൽ ആണ് എന്നാൽ ഒരേ അംഗമല്ല അതിനാൽ ഇവിടെ നമ്മൾ ഒരേ അംഗത്തെ എടുക്കുന്നു ഇവിടെ നമ്മൾ cos 𝑛𝑥 ന് cos 𝑛𝑥 തന്നെ എടുക്കുന്നു അതുപോലെ തന്നെ 𝑛 ഉം അതിനാൽ ഞങ്ങൾ ഒരേ അംഗത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഇത് 0 അല്ല ഏത് മൂല്യം ആണ് വരുന്നതെന്ന് നമ്മൾ നോക്കും അതിനാൽ നമുക്ക് ഈ cos2 𝑛𝑥 ഈ രണ്ട് ആംഗിളിലേക്ക് ഇരട്ട ആംഗിൾ 2𝑛𝑥 ആക്കി മാറ്റാം അതിനാൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിൽ 1cos2𝑛𝑥2 നമുക് ഈ ഫലം കിട്ടും പിന്നീട് ഈ മൂല്യം 𝜋 ആകുന്നുഎങ്ങനെ 𝜋 ആയി അതിനാൽ ആദ്യത്തെ ഇന്റഗ്രൽ ½ ആണ് 𝜋 മുതൽ 𝜋 𝑑𝑥 വരെ ഇവിടെ 𝑑𝑥 മിസ്സിംഗ് ആണ് അതിനാൽ രണ്ടാമത്തേത് വീണ്ടും ½ ആണ് 𝜋 മുതൽ 𝜋 വരെ നമുക്ക് cos 2𝑛𝑥 ഉം 𝑑𝑥 ഉം ഉണ്ട് അതിനാൽ ഈ cos 2𝑛𝑥 𝑑𝑥 ന് നമുക് കാണാം ഇതിന്റെ തൊട്ടുമുകളിൽ ഉള്ളത് അവിടെയുള്ള ഏത് സംഖ്യ 𝑛𝑥 നും 0 ആകും അതിനാൽ ഈ ഇന്റഗ്രൽ 0 ആണ് ആദ്യത്തേത് ½ നൽകുന്നു ഇത് 2𝜋 ആണ് അതിനാൽ അവിടെ 𝜋 ഒരു മൂല്യമായി നമുക്ക് ലഭിക്കും അതിനാൽ ഇവിടെ നമുക് 𝜋 മൂല്യം ഉണ്ട് അതിനാൽ cos2 𝑛𝑥 𝑑𝑥 ഈ ഒന്നിന് തുല്യമാണ് അത് 𝜋 ക്ക് തുല്യമാണ് അതിനാൽ നമ്മൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ എടുക്കുമ്പോൾ മൂല്യം 𝜋 ആണ് അതിനാൽ നമ്മൾ സൈൻ കുടുംബത്തിലെ ഒരംഗം sin എടുക്കുകയാണെങ്കിൽ sin 𝑛𝑥 sin 𝑛𝑥 ഈ കേസിലും നമുക് കാണാൻ കഴിയും 1−cos2𝑛𝑥2 ആണ് വീണ്ടും രണ്ടാമത്തെ ഇന്റഗ്രൽ 0 ലേക്കും ഈ ½ ഇന്റഗ്രലിലേക്കും പോകും 𝜋 മുതൽ 𝜋 വരെ നമുക്ക് 𝜋 ലഭിക്കും അതിനാൽ ഇവിടെ മൂല്യം 𝜋 ആണ് ഏത് സാഹചര്യത്തിലും 1 അംഗം മാത്രമേ ശേഷിക്കുന്നുള്ളൂഇപ്പോൾ നമ്മൾ 1 ന്റെ കൂടെ ഒന്ന് എടുത്ത് അതിനെ 𝜋 മുതൽ 𝜋 𝑑𝑥 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കേസിൽ മൂല്യം സ്വാഭാവികമായും 2𝜋 ആയിരിക്കും അതിനാൽ ഈ മൂന്ന് സാഹചര്യങ്ങൽ നമ്മള് കണ്ടു ഒന്ന് കോസ് വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരേ അംഗത്തെ എടുത്തപ്പോൾ മൂല്യം 𝜋 ആയി സൈൻ വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരേ അംഗത്തെ എടുത്തപ്പോഴും മൂല്യം 𝜋 ആയിരുന്നു കൂടാതെ ഈ 1 ലെ തന്നെ അതേ അംഗം എടുത്തപ്പോൾ കാരണം ഒന്ന് ട്രയഗണോമെട്രിക് സിസ്റ്റത്തിലെ അംഗമാണ് ആ സാഹചര്യത്തിൽ ഇത് 2𝜋 ആണ് കോസിന്റെ മറ്റേതെങ്കിലും അംഗത്തോടൊപ്പം 1 എന്നത് 0 ആണ് സൈനിന്റെ മറ്റേതെങ്കിലും അംഗത്തോടൊപ്പവും 1 എന്നത് 0 ആണ് ഇപ്പോൾ ഒരു വിഭാഗത്തിലെ രണ്ട് വ്യത്യസ്ത അംഗങ്ങളെ നമുക്ക് എടുക്കാനാകുമെന്ന് തെളിയിക്കാൻ ഇവിടെ അവശേഷിക്കുന്നത് 0 ആണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് തുടരാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ 𝑚 ഉം 𝑛 ഉം എന്ന ഇന്റിജേർസ് എടുക്കുന്നു ഇത് രണ്ടും തുല്യം അല്ലെങ്കിൽ നമ്മൾ കോസൈൻ വിഭാഗത്തിൽ നിന്ന് എടുക്കും അതിനാൽ cos 𝑛𝑥 ഉം cos 𝑚𝑥 ഉം 𝑚 ഉം 𝑛 ഉം തുല്യമാകുമ്പോൾ മൂല്യം 𝜋 ആണെന്ന് നമുക് കാണാംഎന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത അംഗങ്ങളുണ്ട് ഒന്ന് cos 𝑛𝑥 മറ്റൊന്ന് cos 𝑚𝑥 𝑚 ഉം 𝑛 ഉം തുല്യമല്ലെങ്കിൽ അവർ വ്യത്യസ്ത വിഭാഗത്തിലെ അംഗങ്ങളാണ് അതിനാൽ ഈ കേസിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് 2 cos 𝑎 cos 𝑏 യുടെ കൂടെയിവിടെ ½ ആണ് അതിനാൽ cos𝑛𝑥 𝑚𝑦 യും cos𝑛𝑥 − 𝑚𝑦 യും കൂടാതെ 𝜋 മുതൽ 𝜋 വരെ ഇന്റെഗ്രേലും ആണ് അതിനാൽ ഇവിടെ സൈൻ വരികയും അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും ഇവിടെയും സൈൻ വരികയും 𝜋 മുതൽ 𝜋 വരെ ആകുകയും ചെയ്യും ഈ കേസിൽ മൂല്യം 0 ആവുകയും ചെയ്യും അതിനാൽ കൊസൈൻ വിഭാഗത്തിലെ രണ്ട് വ്യത്യസ്ത അംഗങ്ങളെ എടുക്കുമ്പോൾ മൂല്യം 0 ആണ് അതുപോലെ നമ്മൾ സൈൻ വിഭാഗത്തിൽ നിന്നും എടുത്താൽ അതേ അവസ്ഥ സംഭവിക്കും അതിനാൽ വീണ്ടും ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കോസിലേക്ക് മാറുന്നത് അവിടെ നെഗറ്റീവ് ചിഹ്നത്തിലൂടെ മാത്രമാണ് മാത്രമല് നമ്മൾ ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും sin𝑛 − 𝑚 𝑥 sin𝑛 𝑚 𝑥 വരികയും കൂടാതെ നമ്മൾ 𝑥 ന്റെ മൂല്യം 𝜋 −𝜋 എന്ന് മാറ്റികൊടുക്കുകയും ചെയ്യണം അതിനാൽ ഇത് 0 ലേക്ക് നയിക്കുംനമ്മൾ ഒരേ വിഭാഗത്തിൽ നിന്ന് രണ്ട് വ്യത്യസ്ത അംഗങ്ങളെ എടുക്കുകയാണെങ്കിൽ അത് 0 ആകുംനമ്മൾ 1 അംഗമായി നിശ്ചയിക്കുകയും കൊസൈനിൽ നിന്നോ സൈനിൽ നിന്നോ മറ്റേതെങ്കിലും അംഗത്തെ എടുക്കുകയും ചെയ്താൽ ആ മൂല്യം 0 ആകുംഅപ്പോൾ ഇപ്പോൾ എന്താണ് അവശേഷിക്കുന്നത് അത് ഏതെങ്കിലും 𝑚 𝑛 ന് നമ്മൾ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ കൊസൈൻ വിഭാഗത്തിൽ നിന്ന് എടുത്താൽ പിന്നെ എന്ത് സംഭവിക്കും അതിനാൽ ഏതൊരു ഇന്റിജെർ 𝑚 𝑛രണ്ട് വ്യത്യസ്ത വിഭാഗത്തിലെ ഏതെങ്കിലും രണ്ട് അംഗങ്ങൾ അർത്ഥമാക്കുന്നത് സൈനും കോസൈനും ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ മനസിലാക്കും അതിനാൽ നമ്മൾ sin 𝑛𝑥 ഉം cos 𝑚𝑥 ഉം എടുക്കും ഇത് രണ്ടും വ്യത്യസ്ത അംഗങ്ങളാണ് ഒന്ന് സൈനിൽ നിന്നും മറ്റേത് കോ സൈനിൽ നിന്നും അപ്പോൾ ഇവിടെ 𝑚 ഉം 𝑛 ഉം തുല്യമാവാം കാരണം അത് രണ്ടു വിഭാഗത്തിൽ പെട്ടതാണ് ഒന്ന് സൈനിൽ നിന്നും മറ്റേത് കോ സൈനിൽ നിന്നും അതിനാൽ നമുക്ക് sin 𝑥 cos 𝑥 നെ കുറിച്ച് സംസാരിക്കാം അതിനാൽ മൂല്യം 0 ആയിരിക്കും ഇവിടെ ന്യായവാദം വളരെ വ്യക്തമാണ് cos ഇവിടെ ഈവൻ ഫങ്ക്ഷനാണ് sin ഓഡ്ഡ് ഫങ്ക്ഷനാണ് നമ്മൾ അത് π മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രാൻഡ് ഓഡ്ഡ് ഫങ്ക്ഷന് ഒട്ട് ഫങ്ക്ഷന് ആണ് 𝑛 അല്ലെങ്കിൽ 𝑚 എന്തുതന്നെയായാലുംമൂല്യം 0 ആയിരിക്കും അതിനാൽ തിയറം ഞങ്ങൾ ഇപ്പോൾ തെളിയിച്ചതിനേക്കാൾ കൂടുതൽ പൊതുവായ ഫലമുണ്ട് അവിടെ ഞങ്ങൾ അടിസ്ഥാന പരമായ ത്രികോണമെട്രിക് സിസ്റ്റം ആണ് എടുത്തിട്ടുണ്ട് അവിടെ കാലഘട്ടം 2π ആയിരുന്നു എന്നാൽ ഒരു സാധാരണ ത്രികോണമെട്രിക് സിസ്റ്റത്തിൽ കാലയളവ് 2π ആകില്ല അത് 2𝑙 ആണ് ഈ ത്രികോണമെട്രിക് സിസ്റ്റം ഇപ്പോൾ നമ്മൾ സാമാന്യവൽക്കരിച്ചു അതേ സമാനമായ ഫലം ഇവിടെയും തെളിയിക്കാൻ കഴിയും അതിനാൽ നമ്മൾക്ക് 1 ഉം cos𝜋xl sin𝜋xl cos2𝜋xl sin2𝜋xl എന്നിവ എടുത്തശേഷം ഞങ്ങൾ cos3𝜋xl sin3𝜋xl മുതലായവയുമായി തുടരും അതിനാൽ ഇവിടെ ഈ ത്രികോണമെട്രിക് സിസ്റ്റം 2πക്ക് പകരം ഇപ്പോൾ 2𝑙 ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ഇടവേളയിൽ ഇത് ഓർത്തോഗോണൽ ആണ് −𝑙 മുതൽ 𝑙 വരെ ഞങ്ങൾ −𝑙 മുതൽ 𝑙 വരെ പോയാൽ ഞങ്ങൾ കാലയളവ് 2𝑙കവർ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് 𝑎 മുതൽ 𝑎 2𝑙 വരെ പോകാം അവിടെ ഒരു യഥാർത്ഥ നമ്പർ ഉണ്ട് അതിനാൽ ഈ ത്രികോണമെട്രിക് സിസ്റ്റം ഈ ഇടവേളകളിൽ ഓർത്തോഗോണൽ ആണ്−𝑙 മുതൽ 𝑙 വരെ അല്ലെങ്കിൽ 𝑎 മുതൽ 𝑎 2𝑙 വരെ അതിനാൽ ഇത് ഞങ്ങൾ തെളിയിച്ച മുൻ ഫലത്തേക്കാൾ കൂടുതൽ പൊതുവായ ഫലമാണ് അതിനാൽ ഇത് ഞങ്ങൾ തെളിയിക്കുന്നില്ല പക്ഷേ കൃത്യമായി തെളിവ് ഞങ്ങൾ അവിടെ എന്താണ് ചെയ്തതെന്ന് സമാനമായ വാദത്തെ പിന്തുടരുന്നു അതിനാൽ ഈ ത്രികോണമെട്രിക് സിസ്റ്റത്തിന്റെ പൊതുകാലയളവ് 2𝑙 ആണ് ഈ ആദ്യത്തെ രണ്ട് പ്രവർത്തനങ്ങളുടെ കാലയളവിൽ നിന്ന് ഇത് എളുപ്പത്തിൽ ലഭിക്കും ഇത് 2𝑙 ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് എന്ത് ഫലങ്ങൾ ഉണ്ട് cos 𝑚𝑥 cos 𝑛𝑥 എന്നിവ −𝑙 മുതൽ 𝑙 വരെ വ്യത്യസ്ത 𝑚ഉം𝑛ഉം എന്നിവയ്ക്കായി സംയോജിപ്പിച്ചാൽ മൂല്യം 0 ആയിരിക്കും ഞങ്ങൾക്ക് ഒരേ 𝑚ഉം𝑛ഉം ഉണ്ടെങ്കിൽ മൂല്യം 𝑙 ആയിരിക്കും മുമ്പ് അത് π അതിനാൽ 𝑚 ≠ 𝑛 ആണെങ്കിൽ മൂല്യം 0 ആണ് അതിനാൽ അവർ രണ്ട് വ്യത്യസ്ത അംഗങ്ങളാണെങ്കിൽ അവർ ഓർത്തോഗോണൽ ആണ് എന്നാൽ അവർ ഒരേ അംഗങ്ങളാണെങ്കിൽ മൂല്യം 𝑙 ആണ് ഇത് ഫലം തെളിയിക്കാൻ കഴിയും കൂടാതെ സൈൻ കുടുംബത്തിന് ഒരേ ഫലം ആണ് നമ്മൾക്ക് ഉള്ളത്അതായത് സൈൻ −𝑙 മുതൽ 𝑙 വരെഅത് 0 ആയിരിക്കുംഅവ ഒരേ കുടുംബത്തിലെ രണ്ട് വ്യത്യസ്ത അംഗങ്ങളാകുമ്പോൾ അവർ ഒന്നുതന്നെയാണെങ്കിൽഅപ്പോൾ മൂല്യം 𝑙 ആയി വരുന്നു കൂടാതെ ഞങ്ങൾക്ക് ഇതിനകം അറിയാംനിങ്ങൾ ഒരു പീരിയോഡിക് ഫങ്ക്ഷനെ −𝑙 മുതൽ −𝑙 വരെ അല്ലെങ്കിൽ 𝑎 മുതൽ 𝑎 2𝑙 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോളും മൂല്യം തുല്യമായിരിക്കും നമുക്ക് ഇപ്പോൾ രണ്ട് വ്യത്യസ്ത അംഗങ്ങൾ സൈനും കൊസൈനും ആണ് ഉണ്ടായിരിക്കാവുന്ന മറ്റൊരു ഫലം ഒന്ന് സൈൻ കുടുംബത്തിൽ നിന്ന് മറ്റൊന്ന് കൊസൈൻ കുടുംബത്തിൽ നിന്ന്തുടർന്ന് ഇതും 0 ആണെന്ന് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ഇത് അടുത്ത പ്രഭാഷണത്തിൽ ഉപയോഗിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ പരാമർശമുണ്ട് 𝑙 𝜋 ആണെങ്കിൽ ഈ സിസ്റ്റം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത സിസ്റ്റത്തിലേക്ക് ചുരുങ്ങും 1 cos 𝑥 sin 𝑥 sin 2𝑥 തുടങ്ങിയവ പോലെ അതിനാൽ ഇത് ഒരേ സംവിധാനമാണ്2𝜋 പീരീഡ് ഉള്ള ഒരു സാധാരണ ത്രികോണമിട്രി വ്യവസ്ഥ ഇതിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ ത്രികോണമിതി സംവിധാനത്തിലെ രണ്ട് വ്യത്യസ്ത അംഗങ്ങളുടെ പ്രൊഡക്ടിനെ ഇന്റഗ്രൽ കാലയളവിന്റെ ദൈർഘ്യത്തിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ മൂല്യം 0 ന് തുല്യമാണ് കൂടാതെ പ്രോഡക്റ്റ് ഒരേ അംഗത്തിൽ നിന്നാണെങ്കിൽ സൈൻ അല്ലെങ്കിൽ കൊസൈൻ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ അതായത് sin𝑥sin𝑥 അല്ലെങ്കിൽ sin2𝑥 sin2𝑥 എടുക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ മൂല്യം ഇടവേളയുടെ പകുതിയാണ് അതിനാൽ നമ്മൾ −𝑙 മുതൽ 𝑙 വരെ ആണ് എടുക്കുന്നതെങ്കിൽ മൂല്യം 𝑙 ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് 𝜋 to 𝜋 വരെ ആണെങ്കിൽ മൂല്യം 𝜋 ആയിരിക്കും ഇതാണ് നമ്മൾ കണ്ടത് ഈ പ്രഭാഷണം തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയൊക്കെയാണ് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ സംക്ഷിപ്തം പറയുകയാണെങ്കിൽനമ്മൾ ട്രിഗണോമെട്രിക് പോളിനോമിയൽ അതായത് സൈനിന്റെയും കോസൈൻ ഫങ്ക്ഷന്റെയും പരിമിതമായ തുക ട്രിഗണോമെട്രിക് സിസ്റ്റം അതായത് 1cos𝜋xl sin𝜋xlഎന്നിവയെ പറ്റിയാണ് നോക്കിയത് −𝑙 മുതൽ 𝑙 വരെ ഉള്ള ഇന്റെർവലിൽ ട്രിഗണോമെട്രിക് ഫങ്ക്ഷന് ഓർത്തോഗോണൽ ആണ് എന്നുള്ള വളരെ കൌതുകകരമായ വസ്തുതയും നമ്മൾ തെളിയിച്ചായിരുന്നു ഇതിനർത്ഥം ഏതെങ്കിലും രണ്ടു മെംബേർസിനെ ഗുണിക്കുകയും അവയെ −𝑙 മുതൽ 𝑙 വരെ ഉള്ള ഇന്റെർവെല്ലിൽ ഇന്റെഗ്രേറ്റും ചെയ്യുകയാണെങ്കിൽ 0 ആയിരിക്കും ലഭിക്കുക എന്നാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടു മെമ്പേഴ്സിന്റെ ഗുണനത്തെ −𝑙 മുതൽ 𝑙 വരെ ഇന്റഗ്രേറ്റ് ചെയ്ത നോക്കാം 0 ആയിരിക്കും ഫലം ഇത്രെയേ ഇന്നത്തെ ലെക്ചറ്റിനു ഉള്ളൂ ശ്രദ്ധയോടെ കേട്ടിരുന്നതിനു നന്ദി